മെക്കാനോബയോളജിയിലെ സാങ്കേതിക വിദ്യകൾ ഹൈഡ്രോജെല്ലുകൾ ഹലോ ഇന്നത്തെ പ്രഭാഷണമായ പ്രവർത്തന ജീവശാസ്ത്രത്തിൻ്റെ മെക്കാനോബയോളജിയുടെ ആമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഈ കോഴ്സിൻ്റെ അവസാന ആഴ്ചയായിരിക്കും കൂടാതെ ഈ ആഴ്ച ഫിസിക്കൽ ഫോഴ്സിൻ്റെയോ കോശസ്വഭാവത്തിൻ്റെയോ ഫലങ്ങൾ പഠിക്കുന്നതിനും കോശങ്ങളെയും കലകളെയും കുറിച്ച് പഠിക്കാനോ അവയുടെ ഗുണങ്ങൾ അളക്കാനോ മെക്കാനബയോളജി മേഖലയിൽ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളും സാങ്കേതികതകളും നമുക്ക് നോക്കാം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കിയാൽ നമ്മൾ തുടങ്ങിയത് കോശത്തിൻ്റെ സാമ്യതയിൽ നിന്നാണ് അവിടെ നിന്ന് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെയും അതിൻ്റെ ഗുണങ്ങളെയും കുറിച്ച് വിശദമായി ചർച്ചചെയ്തു ഫോക്കൽ അഡ്ഹഷനു കളെക്കുറിച്ചും എങ്ങനെയാണ് ശക്തികൾ അഡ്ഹഷനുകളെ ബാധിക്കുന്നതെന്നും ചർച്ച ചെയ്തു അവിടെ നിന്ന് നമ്മൾ സെൽ മൈഗ്രേഷനെക്കുറിച്ചും സാധ്യമായ വിവിധ മൈഗ്രേഷൻ രീതികളെക്കുറിച്ചും ചർച്ചചെയ്തു ശേഷം നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൻ്റെ ഗുണവിശേഷതകൾ കോശ സ്വഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ചർച്ചചെയ്യാൻ തുടങ്ങി ഇത് സാധാരണ കോശസ്വഭാവത്തിൻ്റെ പശ്ചാത്തലത്തിലും രോഗത്തിൻ്റെ പശ്ചാത്തലത്തിലും ചർച്ച ചെയ്തു മൂലകോശങ്ങളെ ഇസിഎം കാഠിന്യത്താലും കോശആകൃതിയിൽ മാറ്റം വരുത്തിയും നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു രോഗങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ കാൻസർ അതിറോസ്ക്ളിറോസിസ് മസ്കുലർ ഡിസ്ട്രോഫി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കുറച്ച് കേസുകളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഞാൻ ആവർത്തിച്ച് ഊന്നിപ്പറഞ്ഞ ആശയങ്ങളിലൊന്നാണ് ഇസിഎം പ്രോപ്പർട്ടികളിലെ മാറ്റം അല്ലെങ്കിൽ ടിഷ്യു പ്രോപ്പർട്ടികളിലെ മാറ്റം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒന്നിലധികം കാഠിന്യമുള്ള കലകൾ കാണാം ഇത് തലച്ചോറിൽ നിന്ന് ആരംഭിക്കുന്നു ഇതിൻറെ ക്രമം 1 kPa കാഠിന്യവും പേശികളുടെ ക്രമം 10 kPa ഉം അസ്ഥി ക്രമം 100 kPa ഉം ആണ് ഈ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കോശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പഠിക്കുന്നതിന് ഈ സവിശേഷതകൾ നിയന്ത്രിക്കാൻ കഴിയുന്ന സബ്സ്ട്രേറ്റുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇസിഎം കാഠിന്യത്തിന്റെയോ ബൾക്ക് ടിഷ്യു കാഠിന്യത്തിന്റെയോ പ്രഭാവം പഠിക്കുകയും കോശ സ്വഭാവം നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് കാഠിന്യത്തെ അനുകൂലമാക്കേണ്ടി വരാം ഇതിനായി നാനോ ടോപ്പോഗ്രാഫി ട്യൂൺ ചെയ്യാം അതിനാൽ ഇസിഎം ഓർഗനൈസേഷന്റെ ഫലമെന്താണെന്ന് അറിയാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ കോശത്തിൻറെ ആകൃതി നിയന്ത്രിക്കേണ്ടി വന്നേക്കാം കൂടാതെ കോശങ്ങളുടെയും കലകളുടെയും അളവ് കണക്കാക്കാനും നിങ്ങൾ ആഗ്രഹിച്ചേക്കാം മെക്കാനൊബയോളജിക്ക് പ്രസക്തമായ വ്യത്യസ്ത സാങ്കേതിക വിദ്യകളുടെ ഭാഗമായി ഇന്ന് നമ്മൾ ഹൈഡ്രോജെല്ലുകളെക്കുറിച്ച് ചർച്ചചെയ്യാൻ പോകുന്നു ഹൈഡ്രോജെൽ പ്രധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ട് ഹൈഡ്രോജെല്ലുകൾക്ക് ഇസിഎം കാഠിന്യവുമായുള്ള ബന്ധം കാരണം വ്യത്യസ്ത കലകളുടെ കൂടുതൽ ഗുണങ്ങളെ അനുകരിക്കുന്ന സബ്സ്ട്രേറ്റുകൾ നിർമ്മിക്കുന്നതിനായി ഹൈഡ്രോജെല്ലുകൾ ഉപയോഗിക്കുന്നതാണ് കാരണം ഹൈഡ്രോജെൽ എന്താണ് എന്ന ചോദ്യത്തിലേക്ക് ഇത് നമ്മെ എത്തിക്കുന്നു ഹൈഡ്രോജെൽ പ്രധാനമായും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന വെള്ളം നിറഞ്ഞ ഒരു പോളിമെറിക് ഘടനയാണ് ഹൈഡ്രോജെല്ലിലെ ക്രോസ് ലിങ്കിൻറെ ഉറവിടം വ്യത്യാസപ്പെടാം അത് ഒരു കെമിക്കൽ കോവാലന്റ് ബോണ്ടായിരിക്കാം അയോണിക് ബോണ്ടായിരിക്കാം ഇതിന് ലളിതമായ ഭൌതിക സങ്കീർണതകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് പാസ്ത പാസ്തയിൽ നിന്ന്നിങ്ങൾക്ക് ഒരു സ്ട്രാന്റ് പുറത്തെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചില ശക്തികൾ പ്രയോഗിക്കേണ്ടതുണ്ട് കൂടാതെ ക്രോസ് ലിങ്കിൽ ദുർബലമായ ഹൈഡ്രജൻ ബോണ്ടിംഗ് അല്ലെങ്കിൽ വാൻ ഡെർ വാളിന്റെ ബലമുണ്ടാകാം weak hydrogen bonding or Van der Wall's force നിങ്ങൾക്ക് ഹൈഡ്രോജെൽ നിർമ്മിക്കാൻ കഴിയുന്ന വ്യത്യസ്ത ഉറവിടങ്ങൾ ഇവയൊക്കെയാണ് ഏതാണ് ഉപയോഗിച്ചതെന്നതിനെ അടിസ്ഥാനമാക്കി ഹൈഡ്രോജെല്ലുകളെ ഹോമോ പോളിമർ കോപോളിമർ omo polymer copolymer എന്നിങ്ങനെ വിശാലമായി തരംതിരിക്കാം കൂടാതെ ഇന്റർപെനിട്രേറ്റിംഗ് നെറ്റ് വർക്കും ഉണ്ട് ഹോമോ എന്നാൽ ഒരൊറ്റ മോണോമർ എന്നാണ് അർത്ഥം അത് പരസ്പരം ബന്ധിപ്പിച്ച് ഒരു പോളിമർ രൂപപ്പെടുത്തുന്നു കോപോളിമറിൽ നിങ്ങൾക്ക് രണ്ടോ അതിലധികമോ മോണോമറുകളുണ്ട് അവ കോവാലന്റ് അല്ലെങ്കിൽ ക്രോസ് ലിങ്ക്ഡ് ആണ് ഇന്റർപെനിട്രേറ്റിംഗ് നെറ്റ്വർക്കിന്റെ കാര്യമെടുത്താൽ ഒരു പോളിമർ നെറ്റ്വർക്ക് മറ്റൊരു പോളിമർ നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഒരു പോളിമർ നെറ്റ്വർക്കിൽ മറ്റൊരു മോണോമർ വീർക്കാൻ അനുവദിക്കുകയാണെങ്കിൽ മറ്റൊരു പോളിമർ നെറ്റ്വർക്ക് കിട്ടും പോളിമറുകൾ എങ്ങനെ നിർമ്മിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കാം ചൂട് മർദ്ദം ഫോട്ടോ പോളിമറൈസേഷൻ അല്ലെങ്കിൽ എക്സ് റേ പോലുള്ള വികിരണം രാസപ്രവർത്തനം തുടങ്ങി ഒന്നിലധികം വ്യത്യസ്ത വഴികളിലൂടെ പോളിമറുകൾ നിർമ്മിക്കാം മെക്കാനൊബയോളജിക്കൽ ആപ്ലിക്കേഷനുകൾക്ക് പ്രസക്തമായ ഒരു ഹൈഡ്രോജെല്ലിന് അഭികാമ്യമായ സവിശേഷതകൾ എന്തായിരിക്കണം ഒരു ഹൈഡ്രോജെല്ലിന് എന്താണ് അഭികാമ്യം ഒന്നാമതായി ജെൽ കോശങ്ങൾക്ക് വിഷമില്ലാത്തതായിരിക്കണം വലിയ രീതിയിൽ കാഠിന്യം വ്യത്യാസപ്പെടുത്തി പഠനങ്ങൾ നടത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒരു പോളിമർ ആവശ്യമാണ് അവിടെ നിങ്ങൾക്ക് നെറ്റ്വർക്കിന്റെ കാഠിന്യം ട്യൂൺ ചെയ്യാൻ കഴിയും കോശങ്ങൾക്കകത്ത് പ്രസക്തമായത് 100 പാസ്കലുകൾ മുതൽ 1000 പാസ്കലുകൾ വരെയുള്ള കാഠിന്യം ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് വിശാലമായ ക്രമം ഉണ്ട് ഹൈഡ്രോജെൽ രേഖീയമായി ഇലാസ്റ്റികതയുള്ളതാണ് വസ്തുക്കൾ രേഖീയമായി ഇലാസ്റ്റിക് ആണെങ്കിൽ കോശങ്ങൾക്ക് ചെലുത്താൻ കഴിയുന്ന ശക്തികളെ കണക്കാക്കാൻ ഇത് എങ്ങനെ എളുപ്പമാക്കുന്നു എന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും ഹൈഡ്രോജൽ ഒപ്റ്റിക്കലായി തെളിഞ്ഞതായിരിക്കണം കാരണം കോശങ്ങളെ വളർത്തിയെടുക്കുന്നത് ഹൈഡ്രോജെല്ലിലാണ് ഇവ ഒപ്റ്റിക്കലായി തെളിഞ്ഞതാണെങ്കിൽ ഫേസ് കോൺട്രാസ്റ്റ് പഠനത്തിനും ഫ്ലൂറസെൻസ് പഠനത്തിനും ഇമേജ് ചെയ്യാനാകും മറ്റൊന്ന് ഇതിലെ ഹൈഡ്രജനുകളിൽ ഭൂരിഭാഗവും പൊതുവെ നിഷ്ക്രിയമാണ് അതിനാൽ ഇഷ്ടമുള്ള ഇസിഎം പ്രോട്ടീനെ രാസപരമായി ക്രോസ് ലിങ്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു പോളിമർ ഉണ്ട് ഇത് ഉപയോഗിച്ച് ഒരു വസ്തു നിർമ്മിക്കാൻ കഴിയും കൂടാതെ അതിൻറെ ബൾക്ക് കാഠിന്യം ഇ ട്യൂൺ ചെയ്യാനും കഴിയും ഈ ജെൽ പ്രവർത്തനക്ഷമമാണ് ഇത് നിങ്ങളുടെ ഇസിഎം പ്രോട്ടീൻ ആണ് ഇത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം ഉദാഹരണത്തിന് നാഡീകോശങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ മസ്തിഷ്ക ന്യൂമാറ്റിക് പരിതസ്ഥിതിയിലെ നാഡീകോശങ്ങളുടെ പെരുമാറ്റത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഇസിഎം പ്രോട്ടീൻ ലാമിൻ ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മിനുസമാർന്ന പേശി കോശങ്ങളുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇ ഓർഡർ 10 കിലോ പാസ്കലുള്ള കൊളാജൻ ഉപയോഗിക്കാം അങ്ങനെ പലതരം ഹൈഡ്രജൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാം ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നത് പോളിഅക്രിലമൈഡ് ജെല്ലുകളാണ് മറ്റൊന്ന് കൂടിയുണ്ട് ഇത് വളരെ സാധാരണമായ പോളി ഡൈമീഥൈൽ ആൽജിനേറ്റ് ജെല്ലുകളാണ് ഇവയെല്ലാം സിന്തറ്റിക് വിഭാഗത്തിൽ പെടും പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് ജെൽ ഉണ്ടാക്കാൻ കഴിയും ഇതിൽ ഏറ്റവും സാധാരണം കൊളാജൻ ജെല്ലാണ് ഫൈബ്രിൻ ജെല്ലുമുണ്ട് കൊളാജനു പകരം ജെലാറ്റിൻ ഉപയോഗിക്കാം ജെലാറ്റിൻ മെത്തിലേറ്റഡ് ജെല്ലുകൾ ഉണ്ടാക്കാം സാധാരണ ഊഷ്മാവിൽ ജെലാറ്റിൻ സ്ഥിരതയുള്ളതല്ല പക്ഷേ ജെലാറ്റിൻ മെത്താക്രിലേറ്റ് ചെയ്ത് അൾട്രാവയലറ്റ് ഉപയോഗിച്ച് ക്രോസ് ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ജെൽ മൊഡ്യൂളുകൾ ലഭിക്കും ഇപ്പോൾ പെപ്റ്റൈഡുകൾ അല്ലെങ്കിൽ പെപ്റ്റൈഡുകൾ കൊണ്ട് നിർമ്മിച്ച മെറ്റീരിയൽ ജെല്ലുകളും ഉണ്ട് അവയിലൊന്ന് അമിലോയിഡ് അടിസ്ഥാനമാക്കിയുള്ള ഹൈഡ്രോജല്ലുകളാണ് പരമ്പരാഗതമായി അമിലോയിഡുകൾ രോഗമുണ്ടാക്കുന്നതാണ് എന്നാൽ പ്രവർത്തനപരമായ അമിലോയിഡുകളും ഉണ്ട് കൂടാതെ മൂലകോശങ്ങളെ ന്യൂറോണൽ പ്രീകഴ്സർ കോശങ്ങളായി വേർതിരിക്കുന്നതിന് ഈ അമിലോയിഡ് ജെല്ലുകൾ അടുത്തിടെ ഉപയോഗിച്ചു മെക്കാനൊബയോളജിക്കൽ പഠനത്തിനായി എങ്ങനെയാണ് ഈ ജെല്ലുകൾ നിർമ്മിക്കുന്നതെന്ന് ഞാൻ ചർച്ച ചെയ്യും ഞാൻ പോളിഅക്രിലമൈഡ് ജെൽ എടുക്കുകയാണ് പിഎ ജെല്ലുകൾ നിർമ്മിക്കാനായി അക്രിലമൈഡ് ലിങ്ക് ചെയ്യുന്നു വെസ്റ്റേൺ പ്ലോട്ടിൽ പ്രോട്ടീൻ പ്രവർത്തിപ്പിക്കാൻ പേജ് അതായത് പോളിഅക്രിലമൈഡ് ജെൽ ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം പേജിൽ അക്രിലമൈഡ് ഉണ്ട് അത് ബിസ് അക്രിലമൈഡുമായി ക്രോസ് ലിങ്ക് ചെയ്തിരിക്കുന്നു ഒരു ടെസ്റ്റ് ട്യൂബിൽ ജെൽ നിർമ്മിക്കുന്നതിനുപകരം നിങ്ങൾ ഒരു ഗ്ലാസ് കവർ സ്ലിപ്പ് എടുക്കുക ഇത് അമിനോപ്രോപൈൽ ട്രൈഎത്തോക്സിലെയ്ൻ ഉപയോഗിച്ചും പിന്നീട് ഗ്ലൂട്ടറാൽഡിഹൈഡ് ഉപയോഗിച്ചും ട്രീറ്റ് ചെയ്യുക അതിന് മുകളിൽ പോളിമറൈസിംഗ് മിശ്രിതം അഥവാ പോളിമറൈസേഷൻ ദ്രാവകം ഒഴിക്കുക ഈ പോളിമറൈസിംഗ് ലായനിയിൽ ടി ഇ എം ഇ ഡി എ പി സ് എന്നിവയുണ്ട് ഇവ ഇത് ജെൽ ആകാൻ അനുവദിക്കുന്നു ഇത് ഉറയ്ക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഇത് ഒരു ശൃംഖലയായി മാറും ജെലേഷൻ സമയം അക്രിലമൈഡിന്റെ അല്ലെങ്കിൽ ബിസ് അക്രിലാമൈഡിന്റെ സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു ഉയർന്ന അളവിലുള്ള ക്രോസ് ലിങ്കിംഗ് പ്രോട്ടീൻ ജെൽ വളരെ വേഗത്തിൽ പോളിമറൈസ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പാക്കും ഈ ജെല്ലുകൾ നിഷ്ക്രിയമാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിനാൽ കോശങ്ങൾ നേരിട്ട് ഈ ജെല്ലുകളിൽ പ്ലേറ്റ് ചെയ്താൽ ഒന്നും പറ്റിപിടിക്കില്ല അതായത് കോശങ്ങൾ പറ്റിനിൽക്കില്ല ഇസിഎം പ്രോട്ടീനുകളും പറ്റിപിടിക്കില്ല ഒരു ഹെറ്റെറോ ഫംഗ്ഷണൽ ക്രോസ് ലിങ്കർ ആണ് ഉപയോഗിക്കുന്നത് ഇതിനെ സൾഫോ സാൻപാ എന്ന് വിളിക്കുന്നു ഇതിലൊന്ന് യുവി വഴി പിഎ ജെല്ലിന്റെ സബ്സ്ട്രേറ്റ്സിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റേ അറ്റം ജെല്ലിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ ഈ ക്രോസ് ലിങ്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇസിഎം പ്രോട്ടീൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഇത് കൊളാജൻ ലാമിനിൻ ഫൈബ്രോനെക്റ്റിൻ collagen laminin fibronectin തുടങ്ങിയവ ആകാം ഒന്നാമതായി ജെല്ലിന്റെ സവിശേഷതകളെ ട്യൂൺ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനുണ്ട് ഇത് ക്രോസ് ലിങ്കർ ഗാഡതയാണെന്ന് നമുക്ക് പറയാം ഞാൻ ഒരു നിശ്ചിത ഗാഡതയിലുള്ള അക്രിലമൈഡ് ഉപയോഗിക്കുകയും ക്രോസ് ലിങ്കർ ഗാഡത മാറ്റുകയും ചെയ്താൽ എനിക്ക് ഇങ്ങനെ ലഭിക്കും ഒപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ജെല്ലിന്റെ കാഠിന്യമാണ് എന്റെ വൈ അക്ഷം എന്ന് പറയട്ടെ അക്രിലമൈഡിന്റെ ഒരു നിശ്ചിത ഗാഡതയിൽ ഇതുപോലുള്ള കർവുകൾ ലഭിക്കും ചില അടിസ്ഥാന കാഠിന്യമുണ്ട് തുടർന്ന് ക്രോസ് ലിങ്കർ വർദ്ധിപ്പിക്കുമ്പോൾ കാഠിന്യം പൂരിതമാവുന്നു എല്ലാ മോണോമറുകളും ക്രോസ് ലിങ്ക് ചെയ്തുകഴിഞ്ഞാൽ പിന്നീട് ക്രോസ് ലിങ്കർ എത്രമാത്രം ചേർത്താലും അധിക ക്രോസ് ലിങ്കിംഗ് സാധ്യമല്ല ഇതിനെ സാച്ചുറേഷൻ ബിഹേവിയർ എന്നു പറയുന്നു ഇത് എ 1 ന്റെ അക്രിലാമൈഡ് ഗാഡതയാണ് നിങ്ങൾ എ1 നെ എ2 ലേക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരേപോലെയുള്ള കർവുകൾ മുകളിലേക്ക് മാറ്റപ്പെടുന്നതായി കാണാം അതിനാൽ ഇത് ഗാഡത എ3 ആണ് ഇത് ഗാഡത എ2 ആണ് എ3 എ2 നെക്കാളും എ2 എ1 നെക്കാളും വലുതാണ് അതിനാൽ ക്യു വിന്റെയും കാഠിന്യത്തിന്റെയും ഒരു ജെൽ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം മോണോമർ ആയ അക്രിലൈമൈഡിന്റെ ഗാഡത അല്ലെങ്കിൽ ക്രോസ് ലിങ്കർ ആയ ബിസ് അക്രിലാമൈഡിന്റെ ഗാഡത മാറ്റാം അക്രിലാമൈഡ് ജെല്ലുകളുടെ പ്രാധാന്യം എന്തെന്നാൽ പി എ ജെലുകൾ രേഖീയമായി ഇലാസ്റ്റിക് ആണ് ലീനിയർലി ഇലാസ്റ്റിക് എന്നതിന്റെ അർത്ഥമെന്താണ് ഒരു നിശ്ചിത അളവിൽ സമ്മർദ്ദം ചെലുത്തി ആ സമ്മർദ്ദം അളന്ന് പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ ചരിവ് ഉള്ള ഒരു നേർരേഖ കിട്ടും ഇ എന്നത് ഇലാസ്തികതയുടെ യംഗ് മോഡുലസ് Young's modulus ആണ് രേഖീയ ഇലാസ്റ്റികത ഉള്ള വസ്തുക്കൾക്ക് ഇ സ്ഥിരമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവിധതരം പഠനങ്ങൾ നടത്തി ഇപ്പോൾ ഒരു ചോദ്യം ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു പ്രത്യേകതരം കോശത്തിനുള്ള ജെല്ലിനെ സോഫ്റ്റ് ജെൽ അല്ലെങ്കിൽ കടുപ്പമുള്ള ജെൽ എന്ന് വിളിക്കുന്നത് എന്തിൻറെ അടിസ്ഥാനത്തിലാണ് ഒരു സബ്സ്ട്രേറ്റ് മൃദുവായതോ കടുപ്പമുള്ളതോ എന്ന് പറയുന്നത് ഒരു നാഡീകോശത്തിന് മൃദുവായത് ഒരു പേശി കോശത്തിന് മൃദുവായതോ അസ്ഥി കോശത്തിന് തുല്യമോ അല്ലെന്ന് പ്രതീക്ഷിക്കും എന്നാൽ ഇത് ശരിയല്ല ഇത് ഒരുപക്ഷേ ശക്തികൾ പ്രയോഗിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു വളരെയധികം ശക്തി പ്രയോഗിക്കാൻ കഴിയാത്ത ഒരു കോശം അതായത് 1 kPa ഉള്ളത് പോലും കടുപ്പമുള്ളതായി തോന്നാം ഇതിന് വിപരീതമായി ഹൃദയകോശങ്ങൾ ധാരാളം സങ്കോചശക്തികൾ പ്രയോഗിക്കുന്ന കോശങ്ങളാണ് അതിനാൽ 1 kPa ഉള്ള ഈ കാർഡിയോ മയോസൈറ്റുകൾ മൃദുവായതായി തോന്നാം ഒരു പ്രത്യേകതരം കോശത്തിന് മൃദുവായതോ കടുപ്പമുള്ളതോ ആയതെന്താണെന്ന് എങ്ങനെ കണ്ടെത്തും ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം കോശങ്ങളുടെ വ്യാപന വിസ്തീർണ്ണം കാഠിന്യത്തിന്റെ പ്രവർത്തനമായി കണക്കാക്കുക എന്നതാണ് കോശങ്ങളുടെ വ്യാപന വിസ്തീർണ്ണത്തിന്റെ ഈ സാച്ചുറേറ്റിംഗ് പ്രൊഫൈലുകൾ നിങ്ങൾക്ക് ലഭിക്കും ഇത് ഏരിയ എ ആണെങ്കിൽ ഇ സബ്സ്ട്രേറ്റ് കാഠിന്യമാണെന്ന് പറയാം അതിനാൽ നിങ്ങൾക്ക് ഏരിയ നിർവചിക്കാൻ കഴിയും ഇത് ഒരു ഹൈപ്പർബോളിക് കർവിന്റെ ഉദാഹരണമാണ് നിങ്ങൾക്കിത് ഒരു എക്സ്പ്രഷനുമായി യോജിപ്പിക്കാൻ കഴിയും ഒരു സ്ഥിരാങ്കം ഉണ്ട് ഈ സ്ഥിരാങ്കം ഈ മൂല്യത്തിന് തുല്യമാണ് ഇവിടെ ഈ സ്ഥിരാങ്കം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫൈൽ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ബാക്ക്ട്രാക്ക് ചെയ്യുന്നത് എന്താണ് ഇ എന്നത് സബ്സ്ട്രേറ്റ് സ്റ്റിഫ്നെസ് ആണ് ഇത് പരീക്ഷണാത്മകമായി കിട്ടിയ അളവാണ് ഏരിയയും ഒരു മെഷേഡ് അളവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കെഇലാസ്റ്റിക്കിന്റെ മൂല്യം അല്ലെങ്കിൽ ചില ഇലാസ്റ്റിക് മാട്രിക്സിന്റെ മൂല്യം ബാക്ക്ട്രാക്ക് ചെയ്യാൻ കഴിയും മിനുസമാർന്ന പേശി കോശത്തിന് ഈ കെ ഇലാസ്റ്റിക് സ്ഥിരാങ്കം 7 മുതൽ 10 കിലോ പാസ്കൽ ആണ് ഈ കെ ഇലാസ്റ്റിക് ഒരു പ്രത്യേകതരം കോശം മൃദുവായതാണോ അല്ലെങ്കിൽ കടുപ്പമുള്ളതാണോ എന്ന് കണക്കാക്കാൻ സഹായിക്കുന്നു ഒരു പ്രത്യേക കെ ഇലാസ്റ്റിക് മൂല്യമുള്ള ഒരു കോശം മൃദുവാണെന്ന് പറയുന്നത് ഇ യുടെ മൂല്യം കെ ഇലാസ്റ്റിക് മൂല്യത്തേക്കാൾ വളരെ കുറവായിരിക്കുമ്പോഴാണ് ഇ യുടെ മൂല്യം കെ ഇലാസ്റ്റിക് മൂല്യവുമായി താരതമ്യപ്പെടുത്താവുന്നതാണെങ്കിൽ കോശം സ്റ്റിഫാണ് ഇലാസ്റ്റിക് സ്ഥിരാങ്കത്തേക്കാൾ ഇ യുടെ മൂല്യം ഗണ്യമായി വർദ്ധിക്കുന്നിടത്ത് കോശം റിജിടാണ് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം ഒരു ജെൽ നൽകിയാൽ നിങ്ങൾ അത് കുറച്ച് ലിഗാണ്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കും അതിനാൽ സെൽ സ്പ്രെഡിംഗിന്റെയോ സെൽ മോട്ടിലിറ്റിയുടെയോ അടിസ്ഥാനത്തിൽ എടുക്കുന്ന അളവ് സബ്സ്ട്രേറ്റ് സ്റ്റിഫ്നെസിനാൽ മാത്രമല്ല നിർണ്ണയിക്കപ്പെടുന്നത് സബ്സ്ട്രേറ്റ് സ്റ്റിഫ്നെസ് മൂല്യവും ലിഗാണ്ട് സാന്ദ്രതയും കൂടി കൂട്ടായി ചേർന്നാണ് ഇത് നിർണ്ണയിക്കുന്നത് ലിഗാണ്ട് സാന്ദ്രത വളരെ ഉയർന്നതാണെങ്കിൽ താരതമ്യേന വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് ലിഗാണ്ട് സാന്ദ്രത കുറയുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇത് ഒരു സ്റ്റാൻഡേർഡ് ഉദാഹരണമാണ് കോശവ്യാപനത്തെ കാഠിന്യത്തിന്റെ പ്രവർത്തനമായി പറയുകയാണെങ്കിൽ ലിഗാണ്ട് സാന്ദ്രത കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസരത്തിൽ പരമാവധി വ്യാപനം ഇന്റർമീഡിയറ്റ് കാഠിന്യ മൂല്യത്തിലാണ് ലഭിക്കുന്നത് ലിഗാണ്ട് സാന്ദ്രത വളരെ കുറവാണെങ്കിൽ സ്റ്റിഫ്നെസ്സിന്റെ അളവ് വർദ്ധിക്കുകയും ഇത് സ്പ്രെഡിങ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പരീക്ഷണം നടത്തുമ്പോൾ മാറ്റം വരുത്തേണ്ട മറ്റൊരു പ്രധാന പാരാമീറ്ററാണിതെന്ന് ഇത് തെളിയിക്കുന്നു നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രതിഭാസങ്ങളെ ആശ്രയിച്ച് ഇത് മറ്റൊരു മൂല്യമായിരിക്കാം ഈ പ്രത്യേക പരീക്ഷണങ്ങളിൽ ലിഗാണ്ട് സാന്ദ്രത കുറവാണെങ്കിൽ ബൈഫാസിക് സ്പീഡ് ഒരു ഫലപ്രദമായ വേഗതയാണെന്ന് രചയിതാക്കൾ കണ്ടെത്തി ലിഗാണ്ട് സാന്ദ്രത കുറവായിരിക്കുമ്പോൾ കാഠിന്യമേറിയ പ്രതലത്തിൽ പരമാവധി ചലനം അവർ ട്രാക്കുചെയ്തു എന്നാൽ ലിഗാണ്ട് സാന്ദ്രത ഉയർന്നപ്പോൾ വേഗത കുറഞ്ഞു കണക്കിലെടുക്കേണ്ട മറ്റൊരു വശം നമ്മൾ സാധാരണയായി ഇതുപോലുള്ള ജെൽ വയ്ക്കുന്നു ഈ ജെല്ലുകൾ ഗ്ലാസ് കവർസ്ലിപ്പുകളിലേക്ക് ക്രോസ് ലിങ്ക് ചെയ്യപ്പെടുന്നു ഇത് കോശങ്ങൾക്ക് കട്ടിയുള്ളതാണ് ഇതിന് മുകളിൽ നിങ്ങൾക്ക് ഒരു ജെൽ ഉണ്ട് ഞാൻ ഇതുപോലെ ജെൽ വരയ്ക്കുന്നുണ്ടെങ്കിലും അതേ കവർ സ്ലിപ്പിൽ നിങ്ങൾ ജെൽ നിർമ്മിക്കുമ്പോൾ ഒരൊറ്റ തുള്ളി അതായത് 15 മുതൽ 25 മൈക്രോലിറ്റർ വരെ ഒഴിക്കുക 25 മില്ലീമീറ്റർ വ്യാസമുള്ള കവർ സ്ലിപ്പിന് മുകളിൽ മറ്റൊരു കവർ സ്ലിപ്പ് ഇടുക ഇത് ഹൈഡ്രോഫോബിക് ആണ് അതിനാൽ ഇത് മുകളിൽ വയ്ക്കുമ്പോൾ അതിനൊപ്പം ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും ലഭിക്കും ഇതാണ് നിങ്ങളുടെ താഴത്തെ കവർ സ്ലിപ്പ് താഴെയും മുകളിലുമുള്ള കവർ സ്ലിപ്പിൽ ജെൽ ഒരേപോലെ വ്യാപിക്കുന്നു ഇത് ചുവടെയുള്ള കവർ സ്ലിപ്പാണ് ഇത് നിങ്ങളുടെ ടോപ്പ് കവർ സ്ലിപ്പാണ് ഇതാണ് നിങ്ങളുടെ ജെൽ നിങ്ങൾ 15 മുതൽ 20 മൈക്രോലിറ്റർ ഉപയോഗിക്കുന്നതിന് പകരം 40 മൈക്രോലിറ്റർ അല്ലെങ്കിൽ 100 മൈക്രോലിറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉയരം മാറും ഒരേ സബ്സ്ട്രെറ്റിനെ തന്നെ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് കട്ടിയുള്ള ഒരു ജെൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ വളരെ നേർത്ത ഒരു ജെൽ ലഭിച്ചേക്കാം കൊടുക്കുന്ന വോള്യത്തിന്റെ അളവ് മാറ്റിക്കൊണ്ട് നിങ്ങൾ പരോക്ഷമായി എന്താണ് മാറ്റുന്നത് ലഭിക്കുന്ന ജെല്ലിന്റെ ഉയരം മാറ്റുകയാണ് ചെയ്യുന്നത് അതിനാൽ ഒരേ ജെല്ലിൽ പോലും സബ്സ്ട്രെറ്റിന്റെ കനംകാഠിന്യം എന്നിവ മാറ്റാം ഞാൻ ഈ പരീക്ഷണം നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എച് ഉയരമുള്ള പിഎ ജെൽ ഉണ്ട് അതിന് മുകളിൽ ഞാൻ കോശങ്ങൾ പ്ലേറ്റ് ചെയ്യുന്നു എച്ച് 70 മൈക്രോണിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവം ലഭിക്കും അതായത് ജെൽ കനംകുറഞ്ഞതാക്കി മാറ്റാം ഉദാഹരണത്തിന് 500 നാനോമീറ്റർ ജെല്ലിനുള്ള സ്പ്രെഡിംഗ് പ്രതികരണം ഞാൻ പ്ലോട്ട് ചെയ്യുന്നു ഇത് 70 മൈക്രോൺ കട്ടിയുള്ള ജെല്ലിനുള്ളതാണ് ഇത് 500 നാനോമീറ്റർ കട്ടിയുള്ള ജെല്ലിനുള്ളതും ഇത് വ്യാപന പ്രദേശമാണ് ഇത് സ്റ്റിഫ്നെസ്സും ഒരു കോശത്തിൻറെ മൃദുവായതും നേർത്തതുമായ ജെല്ലിന് കിട്ടുന്ന അതേ പ്രദേശത്തിന്റെ മൂല്യമാണ് കൂടുതൽ കട്ടിയുള്ള ജെല്ലിനുകിട്ടുന്നതെന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾ അളക്കുന്ന കാര്യങ്ങളിൽ സബ്സ്ട്രെറ്റിന്റെയോ ഗ്ലാസ് കാഠിന്യത്തിന്റെയോ ഫലം ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ജെല്ലിന്റെ ഉയരം 70 മൈക്രോണിൽ കൂടുതലാണെങ്കിൽ കണക്കാക്കുന്ന അളവിൽ കർശനമായ പ്രഭാവം അല്ലെങ്കിൽ കർശനമായ ഗ്ലാസ് പ്രഭാവം ബാധിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് അവസാനമായി ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പഠനങ്ങളിൽ കൂടുതലും ഒരേ പോലെ കാഠിന്യമുള്ള ജെല്ലുകളാണ് ഉപയോഗിക്കുന്നത് ഗ്രേഡിയന്റ് ജെല്ലുകൾ സൃഷ്ടിക്കാൻ മൈക്രോ ഫ്ളൂയിഡിക്സ് ഉപയോഗിച്ച് സാധ്യമാണ് ഇവിടെ ഇത് നിങ്ങളുടെ സബ്സ്ട്രെറ്റ് ആണെങ്കിൽ ഇത് നിങ്ങളുടെ ജെൽ ആണ് ഇതിൻറെ ഗ്രേഡിയന്റ് ഇങ്ങനെയിരിക്കും ഇതാണ് നിങ്ങളുടെ ഗ്ലാസ് ഇത് ജെൽ ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രേഡിയന്റ് ഉണ്ടായിരിക്കും അതിന്റെ ഒരു അറ്റം മൃദുവും ഒരു അറ്റം കഠിനവുമാണ് അതുകൊണ്ട്നിങ്ങൾക്ക് കാഠിന്യത്തിന്റെ ഒരു ഗ്രേഡിയന്റ് സൃഷ്ടിക്കാൻ കഴിയും ഡ്യൂറോടാക്സിസിന്റെ ഫലത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജെല്ലുകൾ നിർമ്മിക്കുന്നത് എന്താണ് ഡ്യൂറോടാക്സിസ് സ്റ്റിഫ്നെസ്സ് ഗ്രേഡിയന്റിന്റെ ദിശയിലേക്കുള്ള കോശങ്ങളുടെ ചലനത്തെ ഡ്യൂറോടാക്സിസ് എന്നു പറയുന്നു എച്ച്എസ്എം ക്യാമൽ മൂലകോശങ്ങൾ ഫൈബ്രോബ്ലാസ്റ്റുകൾ തുടങ്ങിയവയിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഈ കോശങ്ങൾക്ക് ജെല്ലിന്റെ കടുപ്പമേറിയ അറ്റത്തേക്ക് മാറാനുള്ള പ്രവണതയുണ്ട് കൌതുകകരമെന്നു പറയട്ടെ അണ്ഡാശയ ക്യാൻസർ കോശങ്ങൾ റിവേഴ്സ് ഡ്യുറോടാക്സിസ് പ്രകടിപ്പിക്കുന്നു അതായത് നിങ്ങൾ ഈ ജെല്ലുകളിൽ കോശങ്ങൾ പ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവയെല്ലാം മൃദുവായ അറ്റത്തേക്ക് മാറുന്നതായി കാണാം ഇന്ന് ഞാൻ ഇവിടെ നിർത്തുന്നു ചുരുക്കത്തിൽ ഒരു ഹൈഡ്രോജെൽ എന്താണെന്നതിനെക്കുറിച്ചുള്ള ആശയം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മറ്റ് ചില ജെല്ലുകളേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ജെൽ സിസ്റ്റത്തെകുറിച്ചു ഓർമ്മിക്കേണ്ട ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കൊളാജൻ അല്ലെങ്കിൽ ഫൈബ്രിൻ അല്ലെങ്കിൽ മെത്തിലേറ്റഡ് ജെലാറ്റിൻ പോലുള്ള പ്രകൃതിദത്തമായ ജെല്ലുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചില്ല ഇവിടെ ലിഗാണ്ട് സാന്ദ്രതയും കാഠിന്യവും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു അഡ്ഹസീവ് ലിഗാൻഡിന്റെ ഗാഢത നൽകുന്ന അതേ നെറ്റ്വർക്ക് തന്നെ ആ നെറ്റ്വർക്കിന്റെ കാഠിന്യത്തെയും നിർണ്ണയിക്കുന്നു സ്കെയിലിംഗ് ബന്ധം നിരീക്ഷിച്ചാൽ ജി പ്രൈം ഇലാസ്റ്റിക് വസ്തുക്കൾ ലീനിയർ ഇലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുകാണാം ഇതോടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് വീണ്ടും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു